ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഞാൻ നിങ്ങളെ ഈ കോഴ്സ് പഠിപ്പിക്കുന്നു ഇന്ന് നമ്മൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്നെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും സ്ട്രാറ്റജിക് HRM നെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും പ്രത്യേകിച്ചും സ്ട്രാറ്റജിക് HRM ന്റെ ഒരു മോഡൽ കൂടി നമ്മൾ കവർ ചെയ്യും ചില മെറ്റീരിയലുകളിലൂടെ കടന്നുപോകുമ്പോൾ അത് വളരെ ഉപയോഗപ്രദമാണെന്ന് ഞാൻ കണ്ടെത്തി തുടർന്ന് ഭാവിയിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മൾ നീങ്ങും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ് കൂടാതെ എല്ലാ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാരും അത് ഭാവിയിൽ എങ്ങനെ രൂപപ്പെടാൻ പോകുന്നു എങ്ങനെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നിവ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ നമുക്ക് പതിവുപോലെ അത് തുടരാം ഞാൻ രണ്ട് പേപ്പറുകൾ പരാമർശിച്ചു ഈ പേപ്പറുകൾ ഞാൻ കാണിക്കാം യഥാർത്ഥത്തിൽ ഇവ രണ്ടും സമീപകാലത്ത് ഞാൻ പരാമർശിച്ച രണ്ട് ഗവേഷണ പ്രബന്ധങ്ങളാണ് ഒന്ന് ജിയാങ് ടകൂച്ചി ലെപാക്ക് Jiang Takeuchi Lepak എന്നിവരുടേതാണ് മറ്റൊന്ന് സ്വാർട്ടിന്റെയും കിന്നിയുടെയും Swart and Kinnie ഞാൻ ഇവ കാണിക്കട്ടെ ഇത് സ്വാർട്ടിന്റെയും കിന്നിയുടെയും പേപ്പറാണ് റീകൺസിഡറിങ് ബൌണ്ടറീസ് ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മന്റ് ഇൻ എ നെറ്റ് വർക്ക്ഡ് വേൾഡ് Reconsidering Boundaries Human Resource Management in a Networked World എന്നാണ് ഇതിനെ വിളിക്കുന്നത് കൂടാതെ ഞാൻ പരാമർശിച്ച മറ്റൊരു പേപ്പർ ജിയാങ് ടേക്യുച്ചിയും ലെപാക്കും ആണ് കൂടാതെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഗവേഷണത്തിലെ ബ്ലാക്ക് ബോക്സിനെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു പേപ്പറാണിത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു സംയോജിത മാതൃകയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അത് ഞാൻ നിങ്ങളുമായി പങ്കിടും കൂടാതെ മോഡലിന്റെ പുനർനിർമ്മാണം ഈ പേപ്പറിലുണ്ട് ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞാൻ അത് സ്വയം സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇതാണ് യഥാർത്ഥ പേപ്പർ കൂടാതെ പൂർണ്ണമായ റഫറൻസ് ഇവിടെയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ഇത് വായിക്കേണ്ടതാണ് ഇത് വളരെ നല്ലതാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മൾട്ടി ലെവൽ മോഡൽ ജിയാങ് ടേക്യുച്ചിയും ലെപാക്കും പേപ്പറിൽ പരാമർശിച്ച മോഡലാണിത് കൂടാതെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിവിധ തലങ്ങളിൽ എങ്ങനെ വികസിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു പേപ്പറാണിത് വിവിധ തലങ്ങളിൽ അത് എങ്ങനെ വികസിക്കുന്നു അതിനാൽ ജീവനക്കാരുടെ തലത്തിൽ പെർസീവ്ഡ് എച്ച്ആർ സിസ്റ്റങ്ങൾ അതാണ് ഈ ചെറിയ ബോക്സ് വ്യക്തിഗത അറിവ് കഴിവുകൾ നൈപുണ്യങ്ങൾ മറ്റ് സവിശേഷതകൾ എന്നിവയിലേക്ക് അത് പോഷിപ്പിക്കുന്നു KSAO's എന്നത് നോളഡ്ജ് സ്കിൽസ് എബിലിറ്റി അദർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവയെ സൂചിപ്പിക്കുന്നു വ്യക്തികൾക്കുള്ള നിർവഹിക്കാനുള്ള പ്രചോദനവും വ്യക്തികൾക്ക് നിർവഹിക്കാനുള്ള അവസരവും ഇത് നൽകുന്നു മനുഷ്യവിഭവശേഷി സംവിധാനങ്ങൾ ജീവനക്കാർ എങ്ങനെ കാണുന്നു ജീവനക്കാർ ഈ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് അവർക്ക് എന്തെങ്കിലും ബോധമില്ലെങ്കിൽ അവർ അത് എങ്ങനെ ഉപയോഗിക്കും കൂടാതെ ഇത് അവരുടെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നു എന്തോ നിലവിലുണ്ട് പക്ഷേ അവർക്ക് അതേക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അത് വേണ്ടത്ര സൌഹൃദമാണെന്ന് അവർ കരുതുന്നില്ല അല്ലെങ്കിൽ അത് അവർക്ക് പ്രാപ്യമാണെന്ന് അവർ കരുതുന്നില്ല അവർക്ക് സ്വയം വികസിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്ക് എങ്ങനെ അറിയാം കൂടാതെ ഇവിടെയുള്ള ഈ പ്രത്യേക അവസരത്തിന്റെ ഉദാഹരണം ഞാൻ എടുക്കുന്നു NPTEL പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു ഈ മാസ്സീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വെയറിലൂടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെയുള്ള സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തിയ പഠനത്തിനായുള്ള ദേശീയ പരിപാടിയിലൂടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അതിനാൽ ഈ അവസരം നമ്മൾ എല്ലാവരുമായും ബോർഡിലുടനീളം എല്ലാ ഐഐടി ഫാക്കൽറ്റികളുമായും പങ്കിട്ടു കൂടാതെ അത്തരമൊരു അവസരം നിലവിലുണ്ടെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കൂടാതെ നമ്മൾ പഠിപ്പിച്ചതും വികസിപ്പിക്കാൻ കഴിയുന്നതുമായ കോഴ്സുകൾ വികസിപ്പിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തുല്യമായ അവസരം നൽകപ്പെട്ടു ഇതുപോലുള്ള ഒരു ഓൺലൈൻ ടീച്ചിംഗ് മോഡിനായി ഞങ്ങളിൽ ചിലർ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു മറ്റുള്ളവർ ഇത് എങ്ങനെ വികസിക്കും എന്ന് കാത്തിരുന്നു തുടർന്ന് അവർ കോഴ്സുകൾ നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു എന്നാൽ മറ്റു ചിലർ ഈ അവസരത്തിനായി പോകേണ്ടെന്ന് തീരുമാനിച്ചു ആ ഇ മെയിൽ കാണാതെ പോയ ഞങ്ങളിൽ ചിലർ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ ഐഐടി അതിന്റെ ശേഷിയിൽ എല്ലാം ചെയ്തു ഈ വിവരങ്ങൾ ആരുമായും പങ്കിടാൻ ആർക്കെങ്കിലും ഇത് വികസിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ അവസരം ഉപയോഗിക്കുന്നവർക്ക് അവരുടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയും കാരണം ഞങ്ങളും കുറച്ച് പഠിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നു നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ വിഷയത്തെ കുറിച്ച് കുറച്ച് പഠിക്കുന്നു നിങ്ങൾ അവിടെ ഇല്ല അതിനാൽ എനിക്ക് കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ കഴിയില്ല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിരിക്കണം കൂടാതെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറായിരിക്കണം അതിനാൽ സമാനമായി ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് രണ്ട് ഇത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം മൂന്ന് അതിൽ സുഖപ്രദമായിരിക്കേണ്ടതുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നു ശൂന്യമായ ക്ലാസ് മുറിയിൽ സംസാരിക്കുന്നത് എളുപ്പമല്ല കൂടാതെ നിങ്ങൾക്കറിയാമോ ഈ സമയത്ത് ഞാൻ ക്യാമറ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു ദയവായി ക്ലാസിലെ ബാക്കി ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പങ്കെടുക്കുന്നവരെ കാണിക്കുക അവർക്ക് ഒരു ബോധം നൽകാൻ വേണ്ടി മാത്രം അവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും ഈ മുറി എങ്ങനെയിരിക്കുന്നുവെന്നും അവർക്ക് വിദ്യാർത്ഥികളെ കാണിക്കാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും കൂടാതെ ഒരു അവസരം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഞാൻ ഇത് പ്രത്യേകമായി ചെയ്യുന്നു അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്റെ മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ ആണുള്ളത് അതിനാൽ നിങ്ങൾക്കറിയാമോ ഒരുപക്ഷേ ഈ ഇ മെയിൽ ശ്രദ്ധിക്കാത്ത ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു അവസരം നിലവിലുണ്ടെന്ന് അറിയാത്ത ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർ ഇപ്പോഴുമുണ്ട് അവർ എന്നെ കേട്ടെന്ന് ഞാൻ കരുതുന്നു അതെ അവർ ഇപ്പോൾ സൂം ഇൻ ചെയ്യുന്നു നോക്കൂ ഞാൻ ഒരു ശൂന്യമായ ക്ലാസ്റൂമിനോടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്നെത്തന്നെ കാണാം പക്ഷേ ഇവിടെ ആരുമില്ല പക്ഷേ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ് കൂടാതെ ഒരുപാട് തവണയായുള്ള പരിശീലനത്തോടൊപ്പം അത് വന്നിരിക്കുന്നു ഞാൻ ക്യാമറ നോക്കാൻ പഠിച്ചു എന്റെ മുന്നിൽ ഒരു വലിയ സ്ക്രീൻ ഉണ്ട് വളരെ നന്ദി നിങ്ങൾക്ക് തിരികെ ഫോക്കസ് ചെയ്യാം ഇതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ക്യാമറയിലൂടെയാണ് നിങ്ങളെല്ലാവരും ഈ കസേരകളിൽ ഇരിക്കുകയാണെന്നും കൂടാതെ ഞാൻ നിങ്ങളോട് മുഖാമുഖം സംസാരിക്കുന്നുവെന്നും ഞാൻ സങ്കൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് നമുക്കെല്ലാവർക്കും ബോർഡിലുള്ളവർക്കെല്ലാം ലഭ്യമാക്കിയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഈ അവസരം നിലവിലുണ്ടെന്ന് അറിയാത്ത നമ്മുടെ സഹപ്രവർത്തകരിൽ ചിലർ ഇപ്പോഴുമുണ്ട് ഒന്ന് അവർ ഇ മെയിൽ വായിച്ചിട്ടില്ലാത്തതിനാൽ ചില കാരണങ്ങളാൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല രണ്ട് അത് അവരുടെ ജങ്ക് ഫോൾഡറിലേക്ക് പോയിരിക്കാം കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഇരുന്നു ഈ പ്രഭാഷണം നടത്തുന്ന ആരോടും സംസാരിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല എൻപിടിഇഎൽ പ്രോഗ്രാമിനെക്കുറിച്ച് അതിൽ എൻറോൾ ചെയ്ത എന്റെ ചില സഹപ്രവർത്തകർ മുഖേന ഞാനും അറിഞ്ഞു ഞാൻ അവധിക്ക് പുറത്തായിരുന്നു പിന്നെ എനിക്കത് എങ്ങനെയോ നഷ്ടമായി സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രകടനം നടത്താനുള്ള വ്യക്തിഗത അവസരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എംപ്ലോയീ പെർസീവ്ഡ് എച്ച് ആർ സിസ്റ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ഈ അവസരം എന്താണെന്ന് വെച്ചാൽ ഐഐടി സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു വികസന അവസരമാണത് കൂടാതെ അത് ഒരു അധ്യാപകനെന്ന നിലയിൽ നിങ്ങളുടെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നു ഈ പ്രത്യേക കോഴ്സ് അധ്യാപനത്തിൽ എന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് എനിക്ക് മറ്റൊരു വഴിയുണ്ടെന്ന് അറിയുന്നത് എന്റെ ആത്മവിശ്വാസത്തിന് വലിയ ഉത്തേജനമാണ് അതുപോലെ നിങ്ങളുടെ സ്വന്തം ജോലികളിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പ്രചോദിപ്പിക്കുന്ന ചിലത് ഉണ്ടാകും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് നിങ്ങൾക്കത് പരിചിതമായിരിക്കണം നിങ്ങൾ അത് മനസ്സിലാക്കണം കൂടാതെ നിങ്ങൾക്ക് അറിവും കഴിവുകളും മറ്റ് സവിശേഷതകളും ഉണ്ടായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ പരസ്പരം അറിയേണ്ടതുണ്ട് വിവരങ്ങൾ ആഴത്തിൽ നിന്നെടുക്കാൻ എനിക്ക് കഴിയണം എനിക്ക് വിഷയത്തെക്കുറിച്ച് തീക്ഷണമായ അറിവുണ്ടായിരിക്കണം എങ്ങനെ ആശയവിനിമയം നടത്തണമെന്ന് എനിക്കറിയണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്കറിയണം എങ്കിൽ മാത്രമേ ഇവിടെ ഇരുന്നു സംസാരിക്കാനുള്ള യോഗ്യതയും പര്യാപ്തതയും എനിക്കുണ്ടാകൂ അപ്പോൾ മാത്രമേ എന്റെ മുതിർന്നവർക്കും ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടേണ്ടതുള്ളൂ അപ്പോൾ മാത്രമേ എന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ എനിക്ക് ഈ അവസരം ലഭിക്കൂ അതിനാൽ അതാണ് ഈ ചെറിയ ഇവിടെയുള്ള ഈ ബോക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ അത് ജീവനക്കാരുടെ പരിണിത ഫലങ്ങളിലേക്ക് നയിക്കുന്നു അതിനാൽ ഇതാണ് മീഡിയേഷൻ പ്രോസസ്സ് ഇത് പിന്നീട് ടീം ഹ്യൂമൻ ക്യാപിറ്റൽ ടീം മോട്ടിവേഷൻ സ്റ്റേറ്റുകൾ ടീം ഇൻവോൾവ്മെന്റ് എന്നിവയിലേക്ക് ഫീഡ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇത് തുടരും കാരണം ഇത് എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ പലർക്കും ഇത് ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ഇത് എനിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് വ്യത്യസ്ത ഐഐടികളിൽ നിന്നുള്ള ഫാക്കൽറ്റി അംഗങ്ങളുടെ ഒരു ടീം ഒത്തുചേർന്ന് വിവിധ വിഷയങ്ങളിൽ കോഴ്സുകളുടെ ഒരു പരമ്പര വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വീഡിയോ റെക്കോർഡിംഗ് ഉപയോഗിച്ച് ആരംഭിച്ചു തുടർന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരംഭിച്ചു അതിനർത്ഥം നമ്മൾ ഒരു പ്രഭാഷണം നടത്തുക മാത്രമല്ല അതിനെ വ്യാഖ്യാനിക്കാനും വ്യാഖ്യാനിക്കാതിരിക്കാനും അത് ലോകത്തിന് വിടുകയും ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നതെന്തും ഉത്തരവാദികളായിരിക്കണം എന്താണ് ഫോറം നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ ഇടയ്ക്കിടെ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ എനിക്ക് തിരിച്ചുപോകണം എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത് ചെയ്തുവെന്ന് പറയണം എന്നാൽ നിങ്ങൾക്കറിയാമോ നമ്മൾ പറയുന്നതെന്തും വ്യക്തമാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു അത് നിങ്ങളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു അത് ഞങ്ങളുടെ പ്രചോദനത്തിലേക്ക് പോഷിപ്പിക്കുന്നു കൂടാതെ ഹ്യൂമൺ ക്യാപിറ്റൽ വികസിച്ചു ഐഐടിയിലെ അധ്യാപകർ ഇപ്പോൾ ക്ലാസ് മുറിയിലെ അധ്യാപകരല്ല നമ്മൾ പുറത്തുപോയി ക്ലൌഡിലേക്ക് പോയി കൂടാതെ ഈ വിവരങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ നമ്മൾ കോഴ്സുകൾ വികസിപ്പിക്കുകയാണ് ഞങ്ങളുടെ പക്കലുള്ള ഞാൻ ഇപ്പോൾ കാണിച്ചുതന്ന പേപ്പറുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഞങ്ങളുടെ പക്കലുള്ള ഡാറ്റാബേസുകളിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തതാണ് കൂടാതെ ഏതെങ്കിലും പ്രാദേശിക കോളേജിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇതിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എനിക്ക് പ്രവേശനമുണ്ട് അതിനാൽ ഞാൻ അത് എടുത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ നമ്മൾ ഒരുമിച്ചാണ് ഈ വിഭവ അടിത്തറ കെട്ടിപ്പടുക്കുന്നത് ഒപ്പം അത് ടീം മോട്ടിവേഷൻ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നു ഞാൻ ഇതേ കാര്യം ചെയ്യുന്ന മറ്റൊരു ഫാക്കൽറ്റി അംഗത്തോട് സംസാരിക്കുന്നു ഞാൻ ഇവിടെ ചെയ്യുന്നു അദ്ദേഹം അവിടെയിരുന്നു കൊണ്ട് മറ്റൊരു കോഴ്സ് പഠിപ്പിക്കുന്നു ഞങ്ങൾക്ക് പങ്കിടാൻ ഒരുപാട് ഉണ്ട് ഞങ്ങൾ പരസ്പരം പഠിക്കുന്നു ഐഐടി മദ്രാസിലെയോ ഐഐടി ബോംബെയിലെയോ ഐഐടി ഡൽഹിയിലെയോ ഞങ്ങളുടെ മുതിർന്നവരിൽ നിന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ലഭിക്കുന്നു കൂടാതെ ആ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കി ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ഈ പ്രോഗ്രാമിലെ പ്രാരംഭ പ്രഭാഷണങ്ങൾ ഓരോ മണിക്കൂർ വീതം ആയിരുന്നു ആളുകൾക്ക് ഒരു മണിക്കൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന ഫീഡ്ബാക്ക് നമ്മൾക്ക് ലഭിച്ചു ഇന്റർനെറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാൻ ആളുകൾക്ക് ഒരു മണിക്കൂർ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ദയവായി നിങ്ങളുടെ പ്രഭാഷണങ്ങൾ അരമണിക്കൂറായി ചുരുക്കുക എന്ന ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ അതാണ് ടീം ഹ്യൂമൻ ക്യാപിറ്റലിന്റെ വികസനം ഈ കോഴ്സിനായി നിങ്ങൾ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുവെന്ന് നിങ്ങൾ എല്ലാവരും ഫോറത്തിൽ എഴുതുമ്പോൾ അത് എന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു ഒപ്പം ഞാൻ അത് എന്റെ സഹപ്രവർത്തകരുമായി പങ്കിട്ടു പിന്നെ അവർ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുറച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ സ്വന്തമായി പ്രതികരിച്ചു എന്റെ കൂട്ടാളി ബാക്കി ജോലി ചെയ്തു കൊള്ളാം ഞങ്ങളും അത് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്കത് അറിയാം നിങ്ങൾ വ്യക്തിഗതമാവുന്നു നിങ്ങളിൽ ചിലർ ഞങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു സെഷന്റെ മധ്യത്തിൽ എനിക്ക് ചുമ പോലെ വന്നപ്പോൾ പഠിതാക്കളിൽ ആരോ ഒരാൾ ഈ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു പക്ഷേ അവൾ എന്നോട് ചോദിച്ചു എനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അത് വളരെ നല്ലതാണ് കാരണം അപ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു ഒരു അദ്ധ്യാപകൻ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അത് എന്റെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നു എനിക്ക് നിങ്ങളെ അറിയില്ല പക്ഷേ എനിക്ക് ഇപ്പോഴും നിങ്ങളോട് ബന്ധം തോന്നുന്നു കൂടാതെ ഞാൻ ഇത് ടീമിലെ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ഞങ്ങൾക്കെല്ലാം അതിൽ സന്തോഷം തോന്നുന്നു ടീം ഇൻവോൾവ്മെന്റ് റെക്കോർഡിംഗ് ഓഫീസിൽ ഇരിക്കുന്ന ജോലിക്കാർ ശ്രദ്ധിക്കേണ്ടതില്ല പക്ഷേ എനിക്ക് നിങ്ങൾ സൂം ഔട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ നിമിഷം അവർ സൂം ഔട്ട് ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ കാണിച്ചുതന്നു അതിനാൽ കോഴ്സുകളുടെ പരമ്പര വികസിപ്പിക്കുന്നതിൽ മുഴുവൻ ടീമും ഉൾപ്പെടുന്നു ഞാൻ ഇരിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ എത്രമാത്രം പോസിറ്റീവ് എനർജി പ്രചരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക അതുപോലെ NPTEL ലെ ഈ മുഴുവൻ പ്രോഗ്രാമിലും ഭാഗമായ സമാനമായ കെട്ടിടങ്ങളിൽ നമ്മൾ ഐഐടിയിലെ അധ്യാപകരാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ക്ളൌഡിലെ അധ്യാപകരുമാണ് നിങ്ങൾക്കും ഓൺലൈനിൽ എന്തെങ്കിലും പഠിക്കാനുള്ള നിങ്ങളുടെ താൽപ്പര്യത്തിനും നന്ദി അതിനാൽ ഇങ്ങനെയാണ് ഇത് ഇതിലേക്ക് ഫീഡ് ചെയ്യുന്നത് പ്രകടനം നടത്താനുള്ള അവസരം നമ്മൾക്ക് ലഭിച്ച പ്രചോദനം വിജ്ഞാന നൈപുണ്യവും കഴിവുകളും ഹ്യൂമൺ ക്യാപിറ്റലിലേക്ക് നൽകി ഒപ്പം അത് ടീം ഫലങ്ങളിലേക്ക് നയിക്കുന്നു ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ വ്യക്തിഗത ഫലം ഈ കോഴ്സിന്റെ വികസനമാണ് കോഴ്സുകളുടെ ഒരു പരമ്പരയുടെ വികസനമാണ് ടീമിന്റെ ഫലം തുടക്കത്തിൽ അത് വെറും വ്യക്തിഗത കോഴ്സുകൾ ആയിരുന്നു ഇപ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിൽ പ്രതിഫലിക്കുന്നതിന് ടീമിന്റെ ഫലം വികസിച്ചു നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കോഴ്സുകൾ മാത്രമല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് സർട്ടിഫിക്കറ്റുകളും നൽകുന്നു സർട്ടിഫിക്കറ്റുകളുടെ ക്രമം ഞാൻ കണ്ടു അത് വളരെ മനോഹരമാണ് ഐഐടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ സുഖസൌകര്യങ്ങളിൽ ഇരുന്നു നിങ്ങൾക്ക് കഴിയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നു കൂടാതെ നിങ്ങൾ വേണ്ടത്ര പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ നിങ്ങൾ വേണ്ടത്ര പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടത്ര ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് നിങ്ങൾ മികച്ച നിറങ്ങളോടെ വിജയിച്ചു ഒരുപക്ഷേ നിങ്ങളുടെ കോളേജ് അത് തിരിച്ചറിയും നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരുപക്ഷേ ആരെങ്കിലും അത് തിരിച്ചറിയും ഒരുപക്ഷേ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ അത് വളരെ മനോഹരമാണ് അതാണ് ടീമിന്റെ ഫലം ഇപ്പോൾ ഇതാണ് ടീം ലെവൽ എച്ച്ആർ സിസ്റ്റങ്ങൾ അത് ഇതിലേക്ക് നയിക്കുന്നു ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റങ്ങൾ ഇത് സുഗമമാക്കുന്നു അവർ മനസ്സിലാക്കിയ എച്ച്ആർ സിസ്റ്റങ്ങളിലേക്കും ഫീഡ് നൽകുന്നു ഈ മുഴുവൻ കാര്യവും ആരംഭിക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ചില അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയകൾ ഉൾപ്പെടുന്നു സമയം ഉപയോഗപ്പെടുത്തുകയാണെന്ന് നിങ്ങൾക്കറിയാം പണവും ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റ് വിഭവങ്ങൾ ഉണ്ട് ലൈബ്രറികളിലൂടെ ഈ ഡാറ്റാബേസുകളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് ഈ അറിവിന്റെ കൂട നൽകുന്നതിന് ഒരുപാട് ആളുകൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അത് ടീമിന്റെ ഫലങ്ങളിലേക്ക് ഫീഡ് ചെയ്യുന്നു അത് ആത്യന്തികമായി സംഘടനാ ഫലങ്ങളിലേക്ക് ഫീഡ് ചെയ്യുന്നു എങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം ഈ ടീം ഹ്യൂമൺ ക്യാപിറ്റൽ ഇപ്പോൾ ടീമിൽ താൽപ്പര്യമുള്ള ഫാക്കൽറ്റികൾ ഉൾപ്പെടുന്നു അവർ വിവിധ ഐഐടികളിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ സന്നദ്ധരായവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർക്ക് പ്രചോദനം ലഭിക്കുന്നു അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരു പോയിന്റ് മുൻകൂട്ടി കാണാൻ കഴിയും ഒരുപക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് അവസാനിക്കാം എനിക്കറിയില്ല അത് വീണ്ടും നിരാകരണം സംഭവിക്കാൻ പോകുകയാണോ എന്ന് കൂടാതെ ഇക്കാര്യത്തിൽ ഞാൻ അധികാരിയല്ല അത് ശരിക്കും സംഭവിക്കാൻ പോവുകയാണോ എന്ന് ദയവായി ഐഐടി മദ്രാസിൽ പരിശോധിക്കുക പക്ഷേ ഭാവിയിൽ നിങ്ങളുടെ വീടിന്റെ സുഖസൌകര്യങ്ങളിൽ ഇരുന്നു ഈ പ്രഭാഷണങ്ങൾ ശ്രവിച്ചുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബിരുദം നേടാൻ കഴിയുമെങ്കിൽ ഞാൻ അത്ഭുതപ്പെടില്ല അതിനാൽ അതാണ് ഓർഗനൈസേഷണൽ ഹ്യൂമൺ ക്യാപിറ്റൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ചില സംഘടനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ടി ക്ക് പകരം മറ്റൊരു സംഘടനയായിരിക്കാം അത് ചെയ്യുന്നത് ഒരുപക്ഷേ ചില ആളുകൾ ഇതിനകം അത് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിപ്പിക്കാം കൂടാതെ നിങ്ങൾ അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഔപചാരികമായ ബിരുദം നേടാനാകും അത് ആരെങ്കിലും അംഗീകരിക്കുന്നു എനിക്കറിയില്ല അത് നടക്കുമോ എന്ന് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അത്ഭുതപ്പെടാനില്ല അപ്പോൾ അത് ഓർഗനൈസേഷണൽ ഹ്യൂമൺ ക്യാപിറ്റൽന്റെ സൃഷ്ടിയായിരിക്കും ഓർഗനൈസേഷണൽ മോട്ടിവേഷണൽ സ്റ്റേറ്റുകൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണുമ്പോൾ എത്രയോ ദൂരസ്ഥലങ്ങളിൽ ഇരുന്നു ഞങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു എന്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ അവരുടെ സഹായികൾ അവരുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്റെ മരുമക്കൾ അവരുടെ സഹപാഠികൾ എന്നിവർ ഈ കോഴ്സിന് എൻറോൾ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴ്സുകളുടെ വ്യാപനം കാണുന്നത് അതിശയകരമാണ് ഈ കോഴ്സ് മാത്രമല്ല പ്രത്യേകിച്ചും ഉദാഹരണത്തിന് മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വ്യാപനം വളരെ വലുതാണ് കൂടാതെ അത് ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഞങ്ങളുടെ മനോവീര്യം വർധിപ്പിക്കുന്നു അതെ വളരെയധികം ആളുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ സമൂഹത്തിന് മൊത്തത്തിൽ നല്ല എന്തെങ്കിലും ചെയ്യുന്നു ഐഐടി ഖരഗ്പൂരിന്റെ മുദ്രാവാക്യം രാജ്യസേവനത്തിന് സമർപ്പിച്ചിരിക്കുന്നു രാജ്യത്തെ സേവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കൂടാതെ നിങ്ങളെല്ലാവരും ഈ കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർധിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു അതിനാൽ അത് ഓർഗനൈസേഷനൽ മോട്ടിവേഷൻ സ്റ്റേറ്റുകളുടെ മെച്ചപ്പെടുത്തലാണ് കാരണം ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു അവരുടെ ജോലി അവർ ചെയ്യുന്നു അവരിൽ ചിലർ അവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മളുടെ ജോലി നന്നായി ചെയ്യുന്നു അതാണ് സംഘടനാപരമായ ഇടപെടൽ നിങ്ങളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന പ്രതികരണം നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു ഞങ്ങൾ അത് നടപ്പിലാക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ കോഴ്സുകൾക്കായി രജിസ്റ്റർ ചെയ്യുക നിരവധി ആളുകൾ ഈ കോഴ്സുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് സുഗമമാക്കുന്നതിനും ഇത് മികച്ചതാക്കുന്നതിനും അതൊരു വലിയ ഉത്തേജനമാണ് എല്ലാവരും പങ്കാളികളാകേണ്ടതുണ്ട് 247 ഇവിടെയുള്ള ഒരു മുഴുവൻ സാങ്കേതിക ടീമും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് ഇത് പ്രഭാഷണത്തിന്റെ റെക്കോർഡിംഗ് പ്രോസസ്സിംഗ് ആണ് ആരെങ്കിലും കാര്യങ്ങൾ എഴുതണം ആരെങ്കിലും അവ അപ്ലോഡ് ചെയ്യണം സാങ്കേതിക പശ്ചാത്തലം ആരെങ്കിലും ചെയ്യണം അതിനാൽ എല്ലാവരും ഉൾപ്പെടുന്നു അതായത് ഈ ബോക്സ് ഇവിടെയുണ്ട് കൂടാതെ ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഓർഗനൈസേഷൻ ഇതിന് സൌകര്യമൊരുക്കുന്നു ഓർഗനൈസേഷൻ ഓർഗനൈസേഷണൽ ലെവൽ എച്ച്ആർ സംവിധാനങ്ങൾ സുഗമമാക്കുന്നു ടീം ലെവൽ എച്ച്ആർ സംവിധാനങ്ങൾ സുഗമമാക്കുന്നു ഇത് ജീവനക്കാരുടെ ഗ്രഹിക്കുന്ന എച്ച്ആർ സംവിധാനങ്ങളെ സുഗമമാക്കുന്നു ടീം ലെവൽ എച്ച്ആർ സംവിധാനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ഒരു സംവിധാനം ഏർപ്പെടുത്തി വിവിധ ടീമുകളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു കൂടാതെ ടീമുകൾ വ്യക്തികളെ സമീപിച്ചു അവർ ഇതിനെ കുറിച്ച് അറിഞ്ഞു ഇപ്പോൾ ഒരു വ്യക്തിയെന്ന നിലയിൽ എനിക്ക് ഇത് അവിടെയുണ്ട് എന്നറിയാം ഒപ്പം എന്റെ ടീം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു കൂടാതെ ഈ കോഴ്സിൽ ഞാൻ ചെയ്യുന്നതെന്തും ചെയ്യാൻ അത് എന്നെ സഹായിച്ചു അങ്ങനെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നു എച്ച്ആർ സിസ്റ്റം ഒരു ടോപ്പ് ഡൌൺ സമീപനമാണ് ഇത് നിങ്ങളുടെ സ്ക്രീനിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഒരു ടോപ്പ് ഡൌൺ സമീപനമാണ് അവിടെ ഓർഗനൈസേഷനൽ സംവിധാനങ്ങൾ ആദ്യം സ്ഥാപിക്കപ്പെടുന്നു തുടർന്ന് ടീം ലെവൽ എച്ച്ആർ സിസ്റ്റങ്ങളിലേക്ക് വിവരങ്ങൾ താഴേക്ക് പതിക്കുന്നു തുടർന്ന് ഒടുവിൽ ജീവനക്കാരുടെ നില തുടർന്ന് സമയം വരുമ്പോൾ ഫലത്തിനായി ഇതാണ് മധ്യസ്ഥ പ്രക്രിയ വിവിധ ഘട്ടങ്ങളിൽ ഹ്യൂമൺ ക്യാപിറ്റലിന്റെ ഉത്പാദനം താഴെയുള്ള ഒരു പ്രക്രിയയായി മാറുന്നു ജീവനക്കാരൻ ഫലങ്ങൾ നൽകുന്നു തുടർന്ന് ടീം ഫലങ്ങളിലേക്ക് ഫീഡ് ചെയ്യുന്നു ഞാൻ ഉത്പാദിപ്പിക്കുന്നത് വ്യത്യസ്ത ആളുകൾ ഉത്പാദിപ്പിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു ഒപ്പം അതൊരു ടീം ഫലമായും ഒടുവിൽ ഒരു ഓർഗനൈസേഷണൽ ഫലമായും മാറുന്നു വ്യത്യസ്ത ടീമുകൾ വ്യത്യസ്ത ടീമുകളുടെ ഔട്ട്പുട്ട് ശേഖരിക്കുകയും ഓർഗനൈസേഷണൽ ഫലത്തിലേക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയാണ് മനുഷ്യവിഭവശേഷി വികസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് എനിക്ക് നന്നായി അറിയാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായി സമാനമായ ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ കഴിയും അതിനാൽ ഇത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് നിങ്ങളുടെ സമപ്രായക്കാരുമായി ചർച്ച ചെയ്യുക ഇതാണ് സ്ട്രാറ്റജിക് എച്ച്ആർഎമ്മിന്റെ മൾട്ടി ലെവൽ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുമായി സ്വയം യോജിപ്പിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നല്ല നിലവാരവും അറിവും വിവരങ്ങളും ലഭ്യമല്ലാത്ത എല്ലാവർക്കും അറിവ് പകരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടാതെ ഈ മുഴുവൻ പരിപാടിയുടെയും വീക്ഷണം അതാണ് അതിനാൽ നമ്മൾ പരമാവധി ശ്രമിക്കുന്നു നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നു കൂടാതെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ അതിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു അത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നു ഭാവിയിലേക്കുള്ള സ്ട്രാറ്റജിക് HRM ഇമ്പ്ലിക്കേഷനുകൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നു കൂടാതെ ഒരുപക്ഷേ ഇതൊരു ചെറിയ പ്രഭാഷണമായിരിക്കും ഒരുപക്ഷേ നെറ്റ്വർക്കിംഗിനായി മാത്രം അര മണിക്കൂർ ക്ലിപ്പ് ഞാൻ ചേർക്കും അതിനാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തുടരും പക്ഷേ അത് ഒരു പ്രത്യേക ക്ലിപ്പ് ആയിരിക്കും